നമ്മുടെ ആദ്യത്തെ ഉദാഹരണം എയർലൈൻസ് ഷെഡ്യൂളിംഗ് നെറ്റ്വർക്ക് ഗ്രാഫ് ഉപയോഗിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇനി നമുക്ക് അതിന്റെ വ്യത്യസ്തമായ മറ്റൊരു ഭാഗം നോക്കാം നമുക്ക് യൂണിവേഴ്സിറ്റി കാമ്പസിനുള്ളിൽ ക്യാമ്പസ് സിറോക്സ് എന്ന പേരിൽ ഒരു ഫോട്ടോ കോപ്പി ഷോപ്പ് ഉണ്ടെന്ന് കരുതുക പ്രോജക്റ്റുകൾക്കുള്ള സമയപരിധി അടുക്കുന്നതിനാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റുകൾ അടിയന്തിരമായി കോപ്പി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എല്ലാവരും പോയി ഫോട്ടോ കോപ്പിയിങ് ഷോപ്പിൽ അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു അത്തരമൊരു സമയത്തിനുള്ളിൽ നിർമ്മിച്ച നിരവധി പകർപ്പുകൾ അവർക്ക് വേണമെന്ന് പറയുന്നു അതിനാൽ ഈ ജോലി ഷോപ്പിൽ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്നതാണ് ചോദ്യം ഈ പ്രോബ്ലം അവതരിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് അവയിലൊന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്ക് ജോലി സമർപ്പിച്ചുവെന്നും കാമ്പസ് സിറോക്സ് എന്ന ഷോപ്പ് ചില എതിരാളികൾക്കെതിരെ മത്സരിക്കുന്നുവെന്നും കരുതുക അതിനാൽ അത് ഒരു പ്രത്യേക ഡീൽ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഇത് ഓരോ ഉപഭോക്താവിനും ഒരു ഡെലിവറി സമയംവാഗ്ദാനം നൽകുന്നു ഷെഡ്യൂൾ പാലിക്കുന്നില്ലെങ്കിൽ ചില പിസ്സ ഷോപ്പുകൾ ചെയ്യുന്നതുപോലെ ബിൽ തുകയിൽ കിഴിവ് നൽകുമെന്നും അത് പറയുന്നു അതായത് നിങ്ങളുടെ റിപ്പോർട്ടിനെ 6 മണിക്കൂറിനുള്ളിൽ കോപ്പി ചെയ്തു തരുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും നിങ്ങൾക്ക് 6 മണിക്കൂറിനുള്ളിൽ അത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പണം കുറച്ച് നൽകിയാൽ മതിയാകും ഇപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ തീർച്ചയായും ചില വലിയ ജോലികളും ചില ചെറിയ ജോലികളും ഉണ്ട് ചില ഫോട്ടോ കോപ്പി ജോലികൾ വേഗത്തിൽ പൂർത്തിയാകും ചിലത് കൂടുതൽ സമയമെടുക്കും എന്നാൽ അതേ സമയം ഈ ജോലികളെല്ലാം സിറോക്സ് ഷോപ്പിലുള്ള അതേ മെഷീനുകളിൽ പ്രവർത്തിക്കണം ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ പുനക്രമീകരിക്കാൻ കഴിയും അതായത് നമുക്ക് പിന്നീട് വന്ന എന്തെങ്കിലും വർക് എടുത്ത് നേരത്തെ മെഷീനിൽ ഇടുകയും അത് സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം അതിനാൽ അതിനു കിഴിവ് നൽകേണ്ടതില്ല അതേസമയം കൂടുതൽ സമയമെടുക്കുന്നതും പറഞ്ഞ സമയപരിധിക്കുള്ളിൽ തീർക്കാൻ കഴിയില്ല എന്നുള്ളതുമായ എന്തെങ്കിലും വർക് നീട്ടിവെക്കാവുന്നതാണ് അതിനാൽ ഈ ജോലി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്നതാണ് സിറോക്സ് ഷോപ്പിനുള്ള പ്രോബ്ലം ഈ സാഹചര്യങ്ങളിൽ ബ്രൂട്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്ന ഒരു സമീപനം എല്ലായ്പ്പോഴും ഉപയോഗിക്കാവുന്നതാണ് ഈ ഫോട്ടോ കോപ്പി ചെയ്യുവാനുള്ള ജോലികൾ മെഷീനുകൾക്ക് ചില ക്രമത്തിൽ അനുവദിക്കാവുന്നതാണ് അതിനാൽ സാധ്യമായ എല്ലാ ഓർഡറുകളും പരീക്ഷിച്ച് നോക്കാം അതിൽനിന്നു മികച്ച വരുമാനം നൽകുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക എന്നാൽ ഇത് ചെയ്യുന്നതിന് വളരെ വലിയ സമയമെടുക്കും കാരണം പരിശോധിക്കപ്പെടേണ്ട സാധ്യതകളുടെ എണ്ണം എക്സ്പോണൻഷ്യൽ ആണ് എന്നതാണ് നമുക്ക് വെറും 30 അഭ്യർത്ഥനകൾ മാത്രമേ ശേഷിക്കുന്നുള്ളുവെങ്കിൽപ്പോലും ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ഷെഡ്യൂൾ കണ്ടെത്താൻ കുറച്ച് മണിക്കൂറുകൾ എടുത്തേക്കാം കൂടാതെ നിരവധി മണിക്കൂറുകൾ മുന്നോട്ട് പോയി കുറച്ച് ജോലി ചെയ്തിരിക്കാം ഒരുപക്ഷേ കുറച്ച് പണം ലഭിക്കുകയും ചെയ്യും എന്നാൽ അത് ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിലൂടെ ആകണമെന്നില്ല ഇവിടെയാണ് നമ്മൾ ഡീകോമ്പോസിഷൻ എന്ന ആശയത്തിലേക്ക് വരുന്നത് അതിനാൽ ഈ പ്രോബ്ലം ലളിതമായ പല പ്രോബ്ലങ്ങളാക്കി ചുരുക്കി നമുക്ക് അത് പരിഹരിക്കുവാൻ കഴിയും അതിനാൽ ആദ്യം പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ഒരു ജോലി പരിഗണിച്ചു എന്ന് കരുതുക ആദ്യ ജോലി പരിഗണിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ജോലികളുടെ എണ്ണം ഒന്ന് കുറവായിരിക്കും അതിനാൽ n മൈനസ് 1 ജോലികൾ മികച്ച രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ ജോലികൾ ഓരോന്നും തിരഞ്ഞെടുക്കാനാകും ഓരോ ജോലിയും ആദ്യ ജോലിയായി പരിഗണിക്കുന്നു കൂടാതെ ഓരോന്നിനും നമ്മൾ എത്ര സമയമെടുക്കുന്നുവെന്ന് നിർണ്ണയിക്കുന്നു ശേഷിക്കുന്ന n മൈനസ് 1 ജോലികളിൽനിന്നും മികച്ചത് തിരഞ്ഞെടുക്കാനും കഴിയും അതിനാൽ ഇത് നമുക്ക് ഒരുതരം റിക്കാർസീവ് ആയ പരിഹാരം നൽകും ഒരെണ്ണം തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവ പരിഹരിക്കുക തുടർന്ന് ഇതിനുള്ള സമയം കണ്ടുപിടിക്കുക മറ്റൊരു തന്ത്രം ഒരു പുതിയ മാർഗ്ഗം കൊണ്ടുവരിക എന്നതാണ് ഇനിയും ചെയ്യാനിരിക്കുന്ന എല്ലാ ജോലികളും നോക്കുമ്പോൾ അടുത്തതായി ചെയ്യാൻ ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ സമയം എടുക്കുന്ന അതായത് ഏറ്റവും കുറഞ്ഞ പേജുകളുള്ള ജോലി അടുത്തതായി ചെയ്യാം അല്ലെങ്കിൽ ഡെഡ് ലൈൻ ആകാറായ ജോലി അടുത്തതായി ചെയ്യാൻ നമുക്ക് എടുക്കാം അങ്ങിനെ അത് സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും അതുവഴി ബിൽ തുകയിൽ കിഴിവ് നൽകുന്നത് ഒഴിവാക്കാനും സാധിക്കും അതിനാൽ മറ്റ് ജോലികൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നോക്കാതെതന്നെ അടുത്തതായി ഏത് ജോലി ചെയ്യണമെന്ന് പറയുന്ന ഒരു തന്ത്രം നമുക്ക് ഉണ്ടായിരിക്കണം അത് എന്തുതന്നെ ആയിരുന്നാലും നമ്മൾ തിരഞ്ഞെടുത്ത തന്ത്രം ഒപ്ടിമൽ ആണെന്ന് നമുക് ന്യായീകരിക്കേണ്ടതുണ്ട് ഒന്നുകിൽ ഹ്രസ്വമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ സമയപരിധി ആകാറായ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഈ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ന്യായീകരിക്കും ഇത്തരത്തിൽ തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ എനിക്ക് എല്ലായ്പ്പോഴും മികച്ച വരുമാനം ലഭിക്കുമോ എയർലൈൻ നെറ്റ്വർക്ക് പ്രോബ്ലം നമ്മൾ കണ്ടതുപോലെ അടിസ്ഥാന പ്രോബ്ലത്തിന് വ്യത്യസ്തങ്ങളായ ചില വ്യതിയാനങ്ങളുണ്ട് ഉദാഹരണത്തിന് കടയിൽ ധാരാളം ഫോട്ടോ കോപ്പിയറുകളുണ്ടെങ്കിൽ അവയിൽ ചിലത് പുതിയതും ചിലത് പഴയതുമാണെന്ന് ന്യായമായും കരുതാം പുതിയവയിൽ ചിലത് പഴയതിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാം അതിനാൽ ഒരു ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഏത് മെഷീനിൽ ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് ഇത്തരത്തിൽ അധിക മാനദണ്ഡം ഉണ്ടെങ്കിൽ എല്ലാത്തരം മെഷീനുകൾക്കുമായി നമ്മൾ തിരഞ്ഞെടുത്ത ഏകീകൃതവും പഴയതുമായ തന്ത്രങ്ങൾ നമുക്ക് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് പല മെഷിനുകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഘടകം അതിനാൽ നമ്മൾ ഒരു യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന മഷി പേപ്പർ വൈദ്യുതി എന്നിവക്കുള്ള ചെലവ് ഒരു മെഷീനിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കാം അതിനാൽ ഇപ്പോൾ ഈ ചോദ്യം ആദ്യത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ എന്റെ ജോലി പല മെഷീനുകളിൽ ആയി വിഭജിക്കുകയാണെങ്കിൽ ഇതിന് കൂടുതലോ കുറവോ സമയമെടുക്കുക മാത്രമല്ല ഷോപ്പിന് കൂടുതലോ കുറവോ ചെലവാകുകയും ചെയ്യാം അതിനാൽ ഷോപ്പിന്റെ യഥാർത്ഥ വരുമാനം ഏത് മെഷിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് കൂടുതലോ കുറവോ ആയിരിക്കാം നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം ഒരു മെഷീൻ അതിന്റെ അറ്റകുറ്റപ്പണികൾ പേപ്പർ ലോഡുചെയ്യുന്നതിന് മുതലായ ആവശ്യങ്ങൾക്കായി കുറച്ച് സമയത്തേക്ക് നിർത്താതെ അനിശ്ചിതമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ ഓരോ മെഷീനും തുടർച്ചയായി ലഭ്യമാണെന്ന് നമുക്ക് ഇപ്പോഴും അനുമാനിക്കാൻ കഴിയുകയില്ല ഈ സാഹചര്യങ്ങളിലെല്ലാം ഇപ്പോഴും സാധുവായ മാർഗ്ഗം ഗ്രീഡി തന്ത്രമാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതായുണ്ട് നമ്മൾ പരിഹരിക്കാൻ താൽപ്പര്യപ്പെടുന്ന ചില നിബന്ധനകളോടുകൂടിയ ഒരു അടിസ്ഥാന പ്രോബ്ലമുണ്ടെന്നതാണ് ഇവിടെയുള്ള പൊതുവായ ആശയം എന്നാൽ എന്തെങ്കിലും പുതിയ ചില സവിശേഷതകൾ ചേർക്കുന്നതിലൂടെ ആ പ്രോബ്ലം വിപുലീകരിക്കാനോ കൂടുതൽ യാഥാർത്ഥ്യമാക്കാനോ നമുക്ക് കഴിയും നമ്മൾ ഒരോ പുതിയ സവിശേഷത ചേർക്കുമ്പോഴേക്കും ലളിതമായ പ്രോബ്ലങ്ങൾക്കുള്ള പരിഹാരം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ പുതിയ സവിശേഷത പുതിയ സമീപനത്തിലേക്ക് സമൂലമായിട്ടുള്ള മാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ എന്നും അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ലഭിക്കുമെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്